ബ്ലാക്ക് ബോഡി റേഡിയേഷൻ II ഊർജ്ജ സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ റേഡിയേഷന്റെ തീവ്രത മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ ബ്ലാക്ക് ബോഡിയെഒരു ഗോളാകൃതിയിലുള്ള അറയായി നിർവചിച്ചു എനിക്ക് ബ്ലാക്ക് ബോഡി റേഡിയേഷനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഗോളാകൃതിയിലുള്ള അറയിൽ നിന്ന് പുറത്തുവരുന്ന റേഡിയേഷൻപഠിക്കാമെന്ന് നിഗമനം ചെയ്തു ഇപ്പോൾ ഞാൻ ഒരു ഗോളാകൃതിയിലുള്ള അറ എടുക്കുമ്പോൾ അറയിലെ ഊർജ്ജ സാന്ദ്രത u എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഞാൻ നിർവചിക്കാൻ പോകുന്നു എനർജി ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് u എന്നത് അറയിലെ റേഡിയേഷന്റെ ഊർജ്ജ സാന്ദ്രതയാണ് ഈ റേഡിയേഷൻ എവിടെ നിന്ന് വരുന്നു അതിനാൽ ശരീരം T താപനിലയിലേക്ക് ചൂടാക്കിയാൽ അത് റേഡിയേഷൻ കൊണ്ട് അറയിൽ നിറയുന്നു എന്നതാണ് നമ്മളുടെ മുൻ പ്രഭാഷണത്തിൽ കൽക്കരിയുടെ ഉദാഹരണം നിങ്ങൾ കണ്ടതുപോലെ ഞാൻ ഈ കൽക്കരി കത്തിച്ചപ്പോൾ ഒരു അറയുണ്ട് അതിൽ നിന്ന് ചുവന്ന വെളിച്ചം പുറത്തുവരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ താപനിലയനുസരിച്ച് ഈ റേഡിയേഷൻ ശരിയായി സൃഷ്ടിക്കപ്പെടുന്നു തുടർന്ന് ഇത് റേഡിയേഷൻ കൊണ്ട് നിറയും എല്ലാ റേഡിയേഷങ്ങളും കൊണ്ട് നിറയും ഞാൻ അറയിൽ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കിയാൽ ഇവിടെ നിന്ന് റേഡിയേഷൻ വരാൻ തുടങ്ങും ഈ റേഡിയേഷനാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്ന അടുത്ത ചോദ്യം u ഉം അറയുടെ ആഴത്തിലുള്ള ശക്തിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്തുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത് കാരണം സാവധാനത്തിൽ നമ്മൾ u യെ ആശ്രയിക്കുന്ന ആഴത്തിലുള്ള ശക്തി വർദ്ധിപ്പിക്കും ഒടുവിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് u ആണ് അത് ആഴ്ന്നിറങ്ങുന്ന ശക്തി പഠിക്കുന്നത് പോലെ മികച്ചതാണ് നിങ്ങൾ അറയിൽ നിന്ന് പുറത്തുവരുന്ന വികിരണം മനസ്സിലാക്കാൻ പോകുകയാണെങ്കിൽ u അറയ്ക്കുള്ളിൽ ഊർജ്ജം പുറപ്പെടുവിക്കുന്ന ഓസിലേറ്ററുകളുമായി ബന്ധപ്പെട്ടിരിക്കും അതിനാൽ ഈ അളവുകളെല്ലാം ബന്ധപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് ഈ ബന്ധം കണ്ടെത്താം അതിനാൽ ഇതിനായി ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ ദ്വാരം എടുക്കും ഈ ദ്വാരത്തിന് ഒരു ഏരിയ ഉണ്ട് a എത്രത്തോളം വികിരണം പുറപ്പെടുന്നു എന്ന് പരിഗണിക്കുക അതിനാൽ ഞാൻ പ്രദേശത്തിന് ലംബമായി ഒരു കോണിൽ θ നോക്കട്ടെ ഒരു കോണിൽ θ സോളിഡ് ആംഗിൾ d Ω ആയി നോക്കുക ഞാൻ എത്രമാത്രം വികിരണം ശേഖരിക്കുന്നുവെന്ന് നോക്കാം അതിനാൽ ഞാൻ അത് പതുക്കെ ഉയർത്തിക്കൊണ്ടു വരട്ടെ അതിനാൽ ഞാൻ ഈ ചിത്രം വീണ്ടും ചെയ്യുകയാണ് ഇതാണ് അറ ഞാൻ സോളിഡ് ആംഗിളിലേക്ക് നോക്കുകയാണ് ഞാൻ ഒരു ദൂരം r നോക്കുകയും Δ r നീളത്തിന്റെ ഒരു ചെറിയ വോള്യം പരിഗണിക്കുകയും ചെയ്താൽ ഷേഡുള്ള പ്രദേശത്തിന്റെ ഈ വോളിയം Δ V എന്നാൽ d Ωr2 Δr അല്ലാതെ മറ്റൊന്നുമല്ല അതിനുള്ളിലെ റേഡിയേഷൻ ഊർജ്ജം d Ωr2 Δr u തുല്യമാണ് അതാണ് അതിനുള്ളിലെ റേഡിയേഷൻ ഡെൻസിറ്റി ഐസോട്രോപിക് ആയതിനാൽ ഈ വികിരണം ചുറ്റും നടക്കുന്നു അതിനാൽ ഈ വികിരണം ഈ പ്രദേശത്ത് നിന്ന് ചുറ്റുമുള്ള സോളിഡ് ആംഗിൾലേക്ക് പോകുന്നു അതിനാൽ ഈ വികിരണം a ഏരിയയുടെ ദ്വാരത്തിലേക്ക് വരാനുള്ള സാധ്യത വോള്യം Δ V 4 π ലെ പോയിന്റുകളിൽ a നിർമ്മിച്ച സോളിഡ് ആംഗിൾന് തുല്യമായിരിക്കും കാരണം 4 π എന്നത് ഈ വികിരണങ്ങളെല്ലാം പോകുന്ന സോളിഡ് ആംഗിൾ ആണ് അതിനാൽ ഞാൻ ഒരു ഓൺ പോയിന്റും വോളിയം V ഉം ഉണ്ടാക്കിയ സോളിഡ് ആംഗിൾ v4 π കണക്കാക്കിയാൽ അത് പ്രോബബിലിറ്റി ആയിരിക്കും അതിനാൽ നമുക്ക് അത് ചെയ്യാം അതിനാൽ ഇതാ ഈ അറ ഇതാണ് ഷേഡുള്ള പ്രദേശം ഇതാണ് a അതിനാൽ ഇതിന്റെ ലംബമായ ക്രോസ് സെക്ഷൻ a കാരണം ഈ ആംഗിൾ തീറ്റയാണ് ഈ ലംബമായ ക്രോസ് സെക്ഷൻ ഇതാണ് ഇവിടെയും തീറ്റയാണ് അതിനാൽ ഞാൻ ഇത് വലുതാക്കിയാൽ ഇത് a ആണ് ഇതാണ് ലംബ ക്രോസ് സെക്ഷൻ ഈ ആംഗിൾ തീറ്റ അതിനാൽ ഇത് ഒരു cosθ ആയിരിക്കും അതിനാൽ a നിർമ്മിച്ച സോളിഡ് കോൺ ഒരു cosθ r² ആയിരിക്കും അതിനാൽ ഈ പ്രദേശത്തേക്ക് വികിരണം വരാനുള്ള സാധ്യതയെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു cosθ4πr² ആയിരിക്കും ശരിയാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് വോളിയം ΔV മുതൽ ഏരിയ a വരെയുള്ള റേഡിയേഷന്റെഅളവ് acos4 ആയിരിക്കും വികിരണത്തിന്റെ 4πr² മടങ്ങ് പുറത്തേക്ക് പോകുന്ന അവിടെ അടങ്ങിയിരിക്കുന്ന വികിരണത്തിന്റെ അളവ് d Ωr² Δru അല്ലാതെ മറ്റൊന്നില്ല ഞാൻ ഈ r² റദ്ദാക്കാൻ പോകുന്നു ഇത് പുറത്തുവരുന്നു αυ4πcosθ d ΩΔr അതിനാൽ ഇപ്പോൾ Δt Δ rc Δ t യിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ വികിരണങ്ങളും ഏരിയയിൽ നിന്ന് a വരെയുള്ള ദൂരം c Δt ഏരിയ a യിലേക്ക് വരുന്നു അതിനാൽ Δ t സമയത്ത് പുറത്തുവരുന്ന മൊത്തം വികിരണം αυ4π cosθc Δt c ആയിരിക്കും ഇവിടെ c എന്നത് പ്രകാശവേഗതയാണ് അതിനാൽ ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ഇത്തരത്തിൽ ഒരു അറയുണ്ട് എന്ന് കരുതുക ഇത് ഏരിയ a ആണെന്ന് നമ്മൾ കണ്ടെത്തി തുടർന്ന് ആംഗിൾ θ യിൽ Ω ൽ നിന്നു വരുന്ന റേഡിയേഷൻ ΔEαυ4π d Ωc Δ t ആകാൻ പോകുന്നത് ∆E∆T 1aυ4πcd Ω ആണ് കൂടാതെ എനിക്ക് വരുന്ന പവർ കണക്കാക്കണമെങ്കിൽ എല്ലാ വശങ്ങളിൽ നിന്നും ഇവിടെ ഇവിടെ ഇവിടെ ഇവിടെ ഇവിടെ ഇവിടെ ഇവിടെ നിന്നും വരുന്ന പവർ എനിക്ക് d Ω മേൽ സംയോജിപ്പിക്കാൻ ലഭിക്കുന്നു അതിനാൽ യൂണിറ്റ് ഏരിയയിലെ മൊത്തം പവർ 1a∆E∆T മൊത്തത്തിൽ υ4π മേൽ സംയോജിപ്പിക്കപ്പെടും c d Ω dϕd cosθ ആകാൻ പോകുന്നു ഇവിടതെ cosθ ഇവിതെ cosθ യും ഞാൻ മറന്നുപോയി അത് മറ്റൊന്നുമല്ല അത് υ4π dϕ 0 മുതൽ 2 π വരെ സംയോജിപ്പിക്കുകയും cosθ 0 മുതൽ 1 വരെ cosθ d cosθ ¿ ഇത് മറ്റൊന്നുമല്ല υ4π c 2 π½ എന്നത് uc4 ആണ് ഒരു യൂണിറ്റ് ഏരിയയിൽ നിന്ന് പുറത്തുവരുന്ന മൊത്തം പവർ തീവ്രതയല്ലാതെ മറ്റൊന്നുമല്ല ഇതും എമിസീവ് പവറിന് തുല്യമാണ് എനിക്ക് ഇതിനെ ക്യാവിറ്റി e എന്ന് എഴുതാം കാരണം ഇത് ഒരു ബ്ലാക്ക് ബോഡിയുടെ എമ്മിസ്സീവ് പവർ ആണ് അതിനാൽ നമ്മൾ നിഗമനം ചെയ്യുന്നത് ഒരു അറയാൽ പ്രതിനിധീകരിക്കുന്ന ഒരു ബ്ലാക്ക് ബോഡിയുടെ യൂണിറ്റ് സമയത്തിന് മേൽ വിസ്തീർണ്ണമുള്ള എമിസീവ് പവർഎന്നത് u c 4 ആണ് ഇവിടെ u എന്നത് ഊർജ്ജ സാന്ദ്രതയും c എന്നത് പ്രകാശവേഗവുമാണ്